ആശംസകൾ മൊഡ്യൂൾ 2 യൂണിറ്റ് 16 ലേക്ക് സ്വാഗതം ലബോറട്ടറികളും ഇലക്ടീവുകളും വിലയിരുത്തൽ കഴിഞ്ഞ യൂണിറ്റിൽ കോഴ്സ് എക്സിറ്റ് സർവേയുടെ രൂപകൽപ്പനയും ഉപയോഗവും ഞങ്ങൾ കണ്ടു "കോഴ്സ് എക്സിറ്റ് സർവേകളുടെ രൂപകൽപ്പനയും ഉപയോഗവും" ഇതിൽ ഞങ്ങൾ കണ്ട പ്രത്യേക രൂപം വളരെ സാധാരണമാണ് ഏത് തരത്തിലുള്ള കോഴ്സിനും ഇത് ബാധകമാണ് പക്ഷേ ലബോറട്ടറികളുമായും ഇലക്ടീവുകളുമായും ബന്ധപ്പെട്ടപ്പോൾ ചില നിർദ്ദിഷ്ട പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഈ യൂണിറ്റിൽ ലബോറട്ടറി ഇലക്ടീവ് കോഴ്സുകൾക്കായുള്ള എക്സിറ്റ് സർവേകളുടെ രൂപകൽപ്പനയും ഉപയോഗവും ഞങ്ങൾ നോക്കുന്നു ഈ യൂണിറ്റിന്റെ ഫലം ഇതാണ് ലബോറട്ടറി ഇലക്ടീവ് കോഴ്സുകൾക്കായുള്ള എക്സിറ്റ് സർവേകളുടെ രൂപകൽപ്പനയും ഉപയോഗവും മനസ്സിലാക്കുക കഴിഞ്ഞ യൂണിറ്റിൽ ചർച്ചചെയ്ത കോഴ്സ് എക്സിറ്റ് സർവേ വളരെ സാധാരണമാണ് കോർ കോഴ്സുകൾ ലബോറട്ടറി കോഴ്സുകൾ ഇലക്ടീവ് കോഴ്സുകൾ പ്രോജക്ട് വർക്ക് ഇന്റേൺഷിപ്പ് തുടങ്ങി എല്ലാ അക്കാദമിക് പ്രവർത്തനങ്ങൾക്കും ഇത് ബാധകമാണ് എന്നിരുന്നാലും പ്രധാന കോഴ്സുകൾ ഒഴികെയുള്ള പാഠ്യ ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ ചില അധിക പരിഗണനകൾ ആവശ്യമായി വന്നേക്കാം അതിനാൽ കഴിഞ്ഞ യൂണിറ്റിൽ ഞങ്ങൾ നോക്കിയ സർവേ കോർ കോഴ്സുകൾക്ക് കൂടുതൽ ബാധകമാണ് മറ്റ് ഘടകങ്ങൾക്ക് ബാധകമാകാൻ ഇത് പൊതുവായതാണെങ്കിലും കോഴ്സ് എക്സിറ്റ് സർവേകൾ രൂപകൽപ്പന ചെയ്യുന്നതിലും ഉപയോഗിക്കുന്നതിലും ചില അധിക പ്രശ്നങ്ങൾ കണക്കിലെടുക്കേണ്ടതുണ്ട് അതിനാൽ ഈ യൂണിറ്റിൽ ഞങ്ങൾ ലബോറട്ടറി കോഴ്സുകളും ഇലക്ടീവ് കോഴ്സുകളും നോക്കുന്നു ഇപ്പോൾ ലബോറട്ടറികൾ സംഘടിപ്പിക്കുന്ന രീതിയും ഇലക്ടീവ് കോഴ്സുകൾ സംഘടിപ്പിക്കുന്ന രീതിയും പല സ്ഥാപനങ്ങളിലും കാര്യമായി വ്യത്യാസ്തമാണ് ലബോറട്ടറികളെയും ഇലക്ടീവുകളെയും സംബന്ധിച്ചിടത്തോളം വാസ്തവത്തിൽ വലിയ വ്യതിയാനമുണ്ട് ടയർ 1 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഇൻസ്ട്രക്ടർക്ക് സ്വാതന്ത്ര്യമുണ്ട് ലബോറട്ടറികളെ അനുബന്ധ തിയറി കോഴ്സുകളിലേക്ക് സംയോജിപ്പിക്കാം അതായത് ഒരൊറ്റ കോഴ്സ് കോഡുള്ള ഒരു കോഴ്സ് ഉദാഹരണത്തിന് ക്രെഡിറ്റ് ഘടന 3 0 1 അതായത് മൂന്ന് മണിക്കൂർ തിയറി ട്യൂട്ടോറിയലുകൾൾ ഇല്ല ലബോറട്ടറി ജോലിയുടെ ഒരു ക്രെഡിറ്റും ഇത് ആഴ്ചയിൽ രണ്ട് മണിക്കൂർ ജോലി എന്ന് വിവർത്തനം ചെയ്യുന്നു അതിനാൽ തിയറിയും അനുബന്ധലബോറട്ടറിയും ഒരൊറ്റ കോഴ്സിലേക്ക് സംയോജിപ്പിച്ചിരിക്കുന്നു കൂടാതെ ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് ഒറ്റ ഗ്രേഡ് നൽകുകയും ചെയ്യുന്നു അല്ലെങ്കിൽ ഇത് ഒരു സ്വതന്ത്ര കോഴ്സായി വാഗ്ദാനം ചെയ്തേക്കാം ഉദാഹരണം 002 അതിനർത്ഥം ഒരു തിയറിയുമില്ല ട്യൂട്ടോറിയലുകളില്ല 2 ക്രെഡിറ്റുകൾക്ക് വിലയുള്ള ലബോറട്ടറി ജോലികൾ മാത്രം അതായത് ആഴ്ചയിൽ നാല് മണിക്കൂർ ഇത് സ്വയം ഒരു കോഴ്സാണ് ഇതിന് ഒരു ഗ്രേഡ് നൽകും അതിനാൽ ലബോറട്ടറി ജോലിയുടെ അടിസ്ഥാനത്തിലാണ് ഗ്രേഡ് നൽകുന്നത് ലബോറട്ടറി കോഴ്സ് ഒരു സ്വതന്ത്ര കോഴ്സായി വാഗ്ദാനം ചെയ്യുന്നു രണ്ടും സാധ്യമാണ് ടയർ 2 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ലബോറട്ടറികൾ സ്വതന്ത്ര കോഴ്സുകളായി വാഗ്ദാനം ചെയ്യുന്നു എന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും സാധാരണമായ സാഹചര്യം അതിനർത്ഥം സാധാരണയായി ഒരു തിയറിയുമില്ല ട്യൂട്ടോറിയലുകളും ലബോറട്ടറി ക്രെഡിറ്റുകളും മാത്രമാണ് നിലവിലുള്ളത് അത് സ്വയം ഒരു കോഴ്സായി മാറുകയും ഒരു ഗ്രേഡ് നൽകുകയും ചെയ്യുന്നു വ്യത്യസ്ത കോഴ്സ് കോഡുകളുള്ള ഒരു കോഴ്സിലാണ് അനുബന്ധസിദ്ധാന്തം പഠിപ്പിക്കുന്നത് അനുബന്ധ സിദ്ധാന്തമൊന്നുമില്ല എന്നല്ല മറിച്ച് ഇത് ഒരു പ്രത്യേക കോഴ്സ് കോഡുള്ള ഒരു പ്രത്യേക കോഴ്സാണ് കൂടാതെ തിയറി ഭാഗത്തിനും ലബോറട്ടറി ഭാഗത്തിനും ഗ്രേഡുകൾ പ്രത്യേകം നൽകുന്നു അതിനാൽ ലബോറട്ടറി തന്നെ ഒരു കോഴ്സായി മാറുന്നു അതാണ് ടയർ 2 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ ഏറ്റവും സാധാരണമായ സാഹചര്യം നിങ്ങൾക്ക് ഒരു സംയോജിത കോഴ്സ് ഉണ്ടെങ്കിൽ അതിനർത്ഥം തിയറിയും ലബോറട്ടറിയും സംയോജിപ്പിച്ചിരിക്കുന്നു ലബോറട്ടറി ഘടകത്തെക്കുറിച്ച് മാത്രം വളരെയധികം ചോദ്യങ്ങൾ കോഴ്സ് എക്സിറ്റ് സർവേ അനുവദിച്ചേക്കില്ല തിയറി ഭാഗത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ഇതിനകം ചില ചോദ്യങ്ങൾ ഉണ്ട് എന്നതാണ് കാരണം ലബോറട്ടറി ഭാഗത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ചോദിക്കാൻ കഴിയുന്ന ചോദ്യങ്ങളുടെ എണ്ണം വളരെയധികം ഉണ്ടാകണമെന്നില്ല കാരണം എല്ലാ സർവേ ഫോമുകളിലും പരിമിതമായ ദൈർഘ്യമുണ്ടായിരിക്കണം വളരെയധികം ചോദ്യങ്ങളുള്ള സർവേ ഫോം ഞങ്ങൾക്ക് ഉണ്ടാകരുത് അതൊരു നല്ല ഡിസൈനല്ലെന്ന് ഞങ്ങൾ ഇതിനകം കണ്ടുകഴിഞ്ഞു ഒരു സംയോജിത കോഴ്സിനായുള്ള കോഴ്സ് എക്സിറ്റ് സർവേ ലബോറട്ടറി ഘടകങ്ങളെക്കുറിച്ച് നിരവധി ചോദ്യങ്ങൾ അനുവദിച്ചേക്കില്ല അതിൽ നിന്ന് ഒരു സർവേ നടത്താൻ ഞങ്ങൾക്ക് കഴിയില്ല മറുവശത്ത് ഒരു ലബോറട്ടറി മാത്രമുള്ള കോഴ്സിനായുള്ള കോഴ്സ് എക്സിറ്റ് സർവേ കൂടുതൽ വിശദീകരിക്കാം നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയും ഒരു സംയോജിത കോഴ്സിന് പോലും ലബോറട്ടറി ഘടകത്തിന് മാത്രമായി ഒരു പ്രത്യേക എക്സിറ്റ് സർവേ നടത്തുന്നത് സാധ്യമാണ് കാരണം അടുത്ത തവണ കോഴ്സിന്റെ നടപ്പാക്കൽ മെച്ചപ്പെടുത്തുന്നതിന് ഉപയോഗിക്കാവുന്ന ഡാറ്റ ശേഖരിക്കാൻ ഞങ്ങൾ എക്സിറ്റ് സർവേ ഉപയോഗിക്കുന്നു അതിനാൽ ഒരു സംയോജിത കോഴ്സിന്റെ കാര്യത്തിലും ലബോറട്ടറി ഘടകത്തിനായി മാത്രം പ്രത്യേക എക്സിറ്റ് സർവേ നടത്തുന്നതിൽ നിന്ന് ഞങ്ങളെ തടയുന്നില്ല വാസ്തവത്തിൽ ഞങ്ങൾ അത് ചെയ്യുകയാണെങ്കിൽ ലബോറട്ടറികളെക്കുറിച്ച് കൂടുതൽ വിശദമായ ഡാറ്റ നേടാൻ ഞങ്ങൾക്ക് കഴിയും അതിനാൽ കോഴ്സ് സംയോജിത കോഴ്സാണെങ്കിൽ പോലും ലബോറട്ടറി ഘടകത്തിന് മാത്രമായി ഒരു പ്രത്യേക എക്സിറ്റ് സർവേ നടത്തുന്നത് അഭികാമ്യമാണ് അതിനാൽ ലബോറട്ടറി കോഴ്സുകൾക്കായി ഞങ്ങൾ കോഴ്സ് എക്സിറ്റ് സർവേകൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ ഫോമിന്റെ രൂപകൽപ്പനയിൽ ഐക്യുഎസി ഇന്റേണൽ ക്വാളിറ്റി അഷ്വറൻസ് സെൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ലെവലിൽ സമാനമായ ചില ബോഡി ഇവ പങ്കെടുക്കുന്നത് മൂല്യവത്തായിരിക്കാം എക്സിറ്റ് സർവേ ഫോമിന്റെ രൂപകൽപ്പനയിൽ ആ ബോഡി പങ്കെടുക്കുകയാണെങ്കിൽ ചില ഗുണങ്ങളുണ്ട് എക്സിറ്റ് സർവേ ഫോം മുൻകൂട്ടി വെളിപ്പെടുത്തുന്നത് ലബോറട്ടറി കോഴ്സ് മികച്ച രീതിയിൽ നടപ്പിലാക്കുന്നതിന് ഇൻസ്ട്രക്ടറെ സഹായിക്കും ഇത് അൽപ്പം വിചിത്രമായി തോന്നുന്നു പക്ഷേ അടിസ്ഥാനപരമായി സർവേ ഫോം വെളിപ്പെടുത്തുന്നത് ഒരു ലബോറട്ടറി കോഴ്സിന്റെ നല്ല നടപ്പാക്കലിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഇൻസ്ട്രക്ടറെ സംവേദനക്ഷമമാക്കാൻ സഹായിക്കും അത്തരമൊരു വെളിപ്പെടുത്തൽ തന്നെ പ്രത്യേകിച്ച് ഒരു പുതിയ വ്യക്തിക്ക് ലബോറട്ടറി കോഴ്സ് മികച്ച രീതിയിൽ നടപ്പിലാക്കുന്നതിന് വളരെ സഹായകരമാകും അതിനാൽ ചില ചോദ്യങ്ങൾ ലബോറട്ടറി കോഴ്സുകൾ നടപ്പിലാക്കുന്നതിലെ ചില പ്രശ്നങ്ങളെക്കുറിച്ച് ഇൻസ്ട്രക്ടറെ പ്രത്യേകിച്ച് ഒരു പുതിയ ഇൻസ്ട്രക്ടറെ സംവേദനക്ഷമമാക്കാം മാത്രമല്ല ഇത് മികച്ച രീതിയിൽ ലബോറട്ടറി കോഴ്സ് നടപ്പിലാക്കുന്നതിന് സഹായിക്കും എക്സിറ്റ് സർവേ ഫോം മുൻകൂട്ടി വിദ്യാർത്ഥികളുമായി പങ്കിടുന്നത് വിദ്യാർത്ഥികൾക്ക് മികച്ച പഠനത്തിന് സഹായിക്കും വീണ്ടും അതേ യുക്തി ഉപയോഗിച്ച് ലബോറട്ടറി അനുഭവം മികച്ച മാർഗ്ഗത്തിലേക്ക് ഉപയോഗപ്പെടുത്തുന്നതിലൂടെ വിദ്യാർത്ഥികളെ മികച്ച പഠനത്തിന് സഹായിക്കും അതിനാൽ ലബോറട്ടറി കോഴ്സുകൾക്കായി ഒരു എക്സിറ്റ് സർവേ രൂപകൽപ്പന ചെയ്ത് ഫാക്കൽറ്റികളുമായും വിദ്യാർത്ഥികളുമായും പങ്കിടാൻ ഞങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് പഠനത്തെയും ലബോറട്ടറി കോഴ്സ് നടപ്പിലാക്കുന്ന രീതിയെയും സകാരാത്മകമായി സ്വാധീനിക്കുന്നു അതുല്യമായ രൂപകൽപ്പനയില്ലെന്ന് വ്യക്തം ഞങ്ങളുടെ നിർദ്ദിഷ്ട സന്ദർഭത്തിൽ ഏറ്റവും മികച്ചത് എന്താണെന്ന് ഞങ്ങൾ പരീക്ഷിക്കുകയും കാണുകയും വേണം കോഴ്സ് മാനേജുമെന്റ് പഠന പരിസ്ഥിതി കോഴ്സ് ഫലങ്ങൾ ഇൻസ്ട്രക്ടർ സവിശേഷതകൾ എന്നിവയുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ യൂണിറ്റിൽ ചർച്ച ചെയ്ത ചോദ്യങ്ങൾ ലബോറട്ടറി കോഴ്സുകൾക്കും ബാധകമാണ് ഒരുപക്ഷേ അതിന് ആവശ്യമുള്ളിടത്ത് ചില ചെറിയ പരിഷ്ക്കരണങ്ങളാകാം എന്നാൽ നമുക്ക് ചോദിക്കാവുന്ന ലബോറട്ടറികളുമായി ബന്ധപ്പെട്ട ചില സാധാരണ അധിക ചോദ്യങ്ങൾ ഇതായിരിക്കും "പ്രഖ്യാപിത കഴിവുകൾ നേടാൻ ലബോറട്ടറി ജോലികൾ സഹായിച്ചു" "ലബോറട്ടറി വർക്ക് അനുബന്ധതിയറി കോഴ്സുകളിൽ നിന്ന് നേടിയ അറിവിന് മൂല്യം വർദ്ധിപ്പിച്ചു" തിയറി കോഴ്സ് വിദ്യാർത്ഥിക്ക് ചിലതരം അറിവും കഴിവുകളും മനോഭാവങ്ങളും നൽകുന്നു ലബോറട്ടറി വർക്ക് അത് അതിന് എന്തെങ്കിലും മൂല്യം നൽകുന്നുണ്ടോ അല്ലെങ്കിൽ തിയറി ക്ലാസ്സിൽ പഠിച്ചതെല്ലാം വെറുതേ ആവർത്തിക്കുന്നുണ്ടോ "പരീക്ഷണങ്ങൾ നടത്താൻ അനുവദിച്ച സമയം തികച്ചും അപര്യാപ്തമായിരുന്നു അനാവശ്യമായി കൂടുതൽ സമയം നൽകി " അടുത്ത തവണ കോഴ്സ് വാഗ്ദാനം ചെയ്യുമ്പോൾ ലബോറട്ടറി വിനിയോഗം മികച്ച രീതിയിൽ ആസൂത്രണം ചെയ്യാൻ ഇപ്പോൾ ഈ വിവരങ്ങൾ ഞങ്ങളെ സഹായിക്കും പ്രത്യേകിച്ചും ടയർ 1 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ കാരണം ടയർ 2 ൽ ഞങ്ങൾക്ക് വലിയ സ്വാതന്ത്ര്യമില്ലായിരിക്കാം "ഒരു ലബോറട്ടറി സെഷന്റെ അവസാനത്തെ വിലയിരുത്തലുകൾ ഉപയോഗപ്രദമായിരുന്നു" എൻബിഎ ആവശ്യകതയുടെ ഭാഗമായി ഓരോ ലബോറട്ടറി സെഷന്റെയും അവസാനത്തിൽ വിദ്യാർത്ഥികളുടെ പ്രകടനം വിലയിരുത്തുകയും റെക്കോർഡുചെയ്യുകയും ചെയ്യേണ്ടതുണ്ട് ഈ വിലയിരുത്തലുകൾ ആ പ്രത്യേക പരീക്ഷണത്തിന്റെ ഫലം അറിയാൻ വിദ്യാർത്ഥികളെ സഹായിക്കുന്നു ഒപ്പം മറ്റ് ചില ഗുണങ്ങളും കഴിവുകളും ആവശ്യമാണ് ഒരു ലബോറട്ടറി സെഷന്റെ അവസാനത്തിലെ ഈ വിലയിരുത്തലുകൾ അവ വിദ്യാർത്ഥികൾക്ക് സഹായകരമാണോ അതോ അവ വെറും പതിവ് ചോദ്യങ്ങളാണോ മറ്റൊരു പ്രധാന മേഖല ലബോറട്ടറി മാനുവലുകളാണ് അവയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് നിരവധി ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയും അതിനാൽ സാധ്യമായ ചില ചോദ്യങ്ങൾ ഇവയാണ് "പ്രഖ്യാപിത ഫലങ്ങൾ കൈവരിക്കുന്നതിനും പ്രദർശിപ്പിക്കുന്നതിനും നൽകിയ ലബോറട്ടറി മാനുവലുകൾ സഹായകമായിരുന്നു" "ലബോറട്ടറി മാനുവലുകൾ ലബോറട്ടറി ജോലികൾ പട്ടികകൾ പൂരിപ്പിക്കൽ ആയി കുറച്ചിരിക്കുന്നു ചില സ്ഥാപനങ്ങളിൽ ലബോറട്ടറി മാനുവലുകൾ വളരെ വിപുലമായതിനാൽ വിദ്യാർത്ഥിക്ക് പഠിക്കാൻ കൂടുതൽ ഒന്നും തന്നെയില്ല മുഴുവൻ സജ്ജീകരണവും വ്യക്തമായി എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ലബോറട്ടറിയുടെ കാര്യത്തിൽ മുഴുവൻ പ്രോഗ്രാമും നൽകിയിരിക്കുന്നു വിദ്യാർത്ഥി വെറുതെ പ്രോഗ്രാം ടൈപ്പുചെയ്യുന്നു അല്ലെങ്കിൽ മറ്റ് ചില പരീക്ഷണങ്ങളുടെ കാര്യത്തിൽ ചെയ്യേണ്ടതെല്ലാം മൈക്രോ ഘട്ടങ്ങൾ മാനുവലിൽ വിശദമാക്കിയിരിക്കുന്നു വിദ്യാർത്ഥി ഒരു റൂട്ട് രീതിയിൽ മാനുവലിൽ നൽകിയിരിക്കുന്നതെല്ലാം ആവർത്തിക്കുന്നു അച്ചടിച്ച പട്ടികകളിൽ വിദ്യാർത്ഥി ചെയ്യേണ്ടത് ചില മൂല്യങ്ങൾ രേഖപ്പെടുത്തി പട്ടികയിൽ പൂരിപ്പിക്കുക മാത്രമാണ് പ്രായോഗികമായി ഒരു പഠനവും ഉൾപ്പെടുന്നില്ല അതിനാൽ ലബോറട്ടറി മാനുവലുകൾ തയ്യാറാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ലബോറട്ടറി പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും പഠിക്കാൻ അവ വിദ്യാർത്ഥികളെ സഹായിക്കില്ല പരീക്ഷണം പര്യവേക്ഷണം ചെയ്യാനോ പുതിയതൊന്നും പഠിക്കാനോ സഹായിക്കാത്ത ലബോറട്ടറി മാനുവൽ പല വിദ്യാർത്ഥികളും യഥാർത്ഥത്തിൽ ഇഷ്ടപ്പെടുന്നില്ല അതിനാൽ നിങ്ങൾക്ക് ഒരു ചോദ്യം ചോദിക്കാം "ലബോറട്ടറി മാനുവലുകൾ ലബോറട്ടറി ജോലികൾ പട്ടികകൾ പൂരിപ്പിക്കുന്നതായി കുറയ്ക്കുന്നു" വാസ്തവത്തിൽ അത്തരമൊരു ചോദ്യം അത് എക്സിറ്റ് സർവേ ഫോമിലുണ്ടെങ്കിൽ ലബോറട്ടറി നടത്തുന്ന ഇൻസ്ട്രക്ടറും ഈ പ്രശ്നത്തെക്കുറിച്ച് ബോധവാനാകും അതിനാൽ അത്തരമൊരു ചോദ്യം സർവേയിൽ ഉണ്ടെന്നുള്ളത് ലബോറട്ടറി മാനുവൽ പരിഷ്കരിക്കുന്നതിന് ഇൻസ്ട്രക്ടറെ സംവേദനക്ഷമമാക്കിയേക്കാം അതിനാൽ ഞങ്ങൾക്ക് ഈ ചോദ്യം ചോദിക്കാനും പ്രതികരണം ഇങ്ങനെ ആകാം ശക്തമായി വിയോജിക്കുന്നു ശക്തമായി യോജിക്കുന്നു "പ്രസക്തമായ പഠന സാമഗ്രികൾ ലഭ്യമാണ് അവ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാവുന്നതുമാണ് " അനുബന്ധ ഉപയോക്ത മാനുവലുകൾ മാനുവലുകൾ ഉപകരണമാനുവലുകൾ എന്നിവയെ സഹായിക്കുന്നു അവയെല്ലാം എളുപ്പത്തിൽ ലഭ്യവും ആക്സസ് ചെയ്യാവുന്നതുമാണ് "ലബോറട്ടറിയിലെ സാങ്കേതിക സഹായ സ്റ്റാഫ് സഹായകരമായിരുന്നു" അതും നമുക്ക് ചോദിക്കാൻ കഴിയുന്ന മറ്റൊരു ചോദ്യം ലബോറട്ടറി ജോലികൾക്ക് സഹായകമായ ഉപകരണങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ച് മതിയായ പരിശീലനം നൽകി ലബോറട്ടറി ജോലികൾ തിയറി ജോലികൾ പോലെ ശ്രദ്ധാപൂർവ്വം ആസൂത്രണം ചെയ്തിട്ടില്ല എന്നത് ഇപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നു ലബോറട്ടറി പഠന അനുഭവം മികച്ചതാക്കുന്ന ഉപകരണങ്ങൾക്ക് വേണ്ടത്ര ശ്രദ്ധ ലഭിക്കില്ല ഈ ഉപകരണങ്ങളുടെ ഉപയോഗത്തിൽ വിദ്യാർത്ഥികൾക്ക് മികച്ച പരിശീലനം ലഭിച്ചിട്ടില്ല ഇത് വിദ്യാർത്ഥികളുടെ നിലവാരമില്ലാത്ത പഠനത്തിലേക്ക് നയിക്കുന്നു ഉദാഹരണത്തിന് ഒരു സാധാരണ പ്രോഗ്രാമിംഗ് പരിതസ്ഥിതിയിൽ പ്രത്യേകിച്ച് ആദ്യ വർഷത്തിൽ വാസ്തവത്തിൽ മിക്ക സ്ഥാപനങ്ങളിലും ആദ്യ വർഷത്തിൽ ഒരു പ്രോഗ്രാമിംഗ് കോഴ്സ് സി ഭാഷയെ അടിസ്ഥാനമാക്കിയുള്ളതാകാം ചിലപ്പോൾ ഇത് പൈത്തൺ അല്ലെങ്കിൽ ജാവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് പക്ഷേ സാധാരണഗതിയിൽ മിക്ക ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും ആദ്യ വർഷത്തിൽ ഒരു പ്രോഗ്രാമിംഗ് കോഴ്സ് ഉണ്ട് ഭാഷ പഠിപ്പിക്കുമ്പോൾ നിർദ്ദിഷ്ട നിർവ്വഹണ അന്തരീക്ഷം അല്ലെങ്കിൽ വികസന അന്തരീക്ഷം വിദ്യാർത്ഥികൾക്ക് പരിചിതമാണ് പലപ്പോഴും ബന്ധപ്പെട്ട ഡീബഗ്ഗിംഗ് ഉപകരണങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകുന്നില്ല വിദ്യാർത്ഥികൾ ട്രയൽ ആ൯ഡ് ഇറർ രീതിയിൽ ചെയ്യുന്നു അവർ പ്രോഗ്രാമുകൾ ശരിയാക്കാൻ ശ്രമിക്കുന്നു എന്നാൽ ഔപചാരികമായി പ്രോഗ്രാമുകൾ കാര്യക്ഷമമായി ഡീബഗ് ചെയ്യാൻ സഹായിക്കുന്ന ഉപകരണങ്ങളുടെ ആമുഖം വിദ്യാർത്ഥികൾ ശരിക്കും പഠിക്കുന്നില്ല അത്തരം പരിശീലനത്തിന് നിർദ്ദേശം വ്യക്തമായി നൽകുന്നില്ല അതിനാൽ ഞങ്ങൾക്ക് ഒരു ചോദ്യം ചോദിക്കാം "ലബോറട്ടറി പ്രവർത്തനങ്ങളിൽ സഹായകരമായ ഉപകരണങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ച് മതിയായ പരിശീലനം നൽകി " അതുപോലെ ഇലക്ട്രോണിക്സ് അനുബന്ധ മേഖലകളിലെ നിരവധി വകുപ്പുകളിൽ സർക്യൂട്ട് എമുലേറ്ററുകളിൽ ലോജിക് അനലൈസറുകൾ പോലുള്ള നല്ല ഉപകരണങ്ങൾ ഉണ്ട് എന്നാൽ അവ മിക്കവാറും അലമാരയിൽ പൂട്ടിവച്ചിരിക്കും സാധാരണ ലബോറട്ടറി ജോലികളിൽ ഈ ഉപകരണങ്ങൾ ശരിക്കും ഉപയോഗിക്കുന്നില്ല ഈ ഉപകരണങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് മതിയായ പരിശീലനം നൽകുന്നില്ല വാസ്തവത്തിൽ ചിലപ്പോൾ ഈ ഉപകരണങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ച് ഒരു പരിശീലനവും ഇല്ലാത്തതിനാൽ പഠന ഗുണനിലവാരം ബാധിക്കപ്പെടുന്നു വിഭവങ്ങൾ ലഭ്യമാണെങ്കിലും അവ ശരിയായി ഉപയോഗപ്പെടുത്തുന്നില്ല അതിനാൽ നമുക്ക് ഒരു ചോദ്യം ചോദിക്കാം "ലബോറട്ടറി പ്രവർത്തനങ്ങളിൽ സഹായകരമായ ഉപകരണങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ച് മതിയായ പരിശീലനം നൽകി " ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ചോദ്യം സർവേ രൂപത്തിൽ തന്നെ ഉള്ളതിനാൽ അത്തരം ഉപകരണങ്ങൾ കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനുള്ള സാധ്യതകൾ പര്യവേക്ഷണം ചെയ്യുന്നതിന് ഫാക്കൽറ്റികളെയും വിദ്യാർത്ഥികളെയും പ്രേരിപ്പിച്ചേക്കാം "ആവശ്യമായ ഉപകരണങ്ങൾ നന്നായി പരിപാലിക്കുകയും കാലിബ്രേറ്റ് ചെയ്യുകയും ചെയ്തു " പ്രാഥമികമായി ഇത് പരീക്ഷണത്തിൽ സാധുവായ ഫലങ്ങളിലേക്ക് നയിക്കില്ല വിദ്യാർത്ഥി ആശയക്കുഴപ്പത്തിലാണെങ്കിൽ ലബോറട്ടറി സപ്പോർട്ട് സ്റ്റാഫ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർമാർ അവർ ഡാറ്റ പരിശോധിക്കുമ്പോൾ ഉപകരണങ്ങളിൽ പ്രശ്നങ്ങളുണ്ടെന്ന് അവർ പൊതുവെ കണ്ടെത്തുന്നു പരീക്ഷണം ശരിയായി നടത്തുകയും ഡാറ്റ ശരിയായി രേഖപ്പെടുത്തുകയും ചെയ്ത വിദ്യാർത്ഥികൾ ഫലങ്ങൾ അസാധുവാണ് വിദ്യാർത്ഥിയുടെ ഭാഗത്തെ ഏതെങ്കിലും പിശക് കാരണം അല്ല ഉപകരണങ്ങളിലെ പ്രശ്നങ്ങൾ കാരണം അവരുടെ കാലിബ്രേഷൻ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റ് ചില പ്രശ്നങ്ങൾ ഉപകരണമാണ് പ്രശ്നം നൽകുന്നത് എന്ന് വിദ്യാർത്ഥി മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് അതിനാൽ നമുക്ക് ചോദ്യം ചോദിക്കാം "ആവശ്യമായ ഉപകരണങ്ങൾ നന്നായി പരിപാലിക്കുകയും കാലിബ്രേറ്റ് ചെയ്യുകയും ചെയ്തു " വാസ്തവത്തിൽ അക്രഡിറ്റേഷനിൽ ഇത് അത്യാവശ്യ മാനദണ്ഡങ്ങളിൽ ഒന്നാണ് ഉപകരണങ്ങൾ പതിവായി സർവീസ് ചെയ്യുകയും ആവശ്യാനുസരണം കാലാനുസൃതമായി കാലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നു അതിനാൽ വകുപ്പിന് ഉചിതമായ പ്രതിരോധ അറ്റകുറ്റപ്പണി ഷെഡ്യൂൾ ഉണ്ടായിരിക്കണം അതും ആ ഭാഗത്തുനിന്നുള്ള ആവശ്യകതയാണ് എന്നാൽ വിദ്യാർത്ഥികളുടെ പഠന ഭാഗത്ത് നിന്ന് നമുക്ക് ഈ ചോദ്യം ചോദിക്കാം "ആവശ്യമായ ഉപകരണങ്ങൾ നന്നായി പരിപാലിക്കുകയും കാലിബ്രേറ്റ് ചെയ്യുകയും ചെയ്തു " "ആവശ്യമായ ഘടകങ്ങൾ എല്ലായ്പ്പോഴും ലഭ്യമാണ്" "ലാബിലെ ഭൌതിക അന്തരീക്ഷം നന്നായി പരിപാലിക്കപ്പെട്ടു അനുകൂലമായി" "കോഴ്സിന് ചില പര്യവേക്ഷണ പഠനങ്ങളെ അനുവദിക്കുന്ന ചില തുറന്ന പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു " ഒരു ടയർ 1 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇത് വീണ്ടും എളുപ്പമാണ് എന്നാൽ ഒരു ടയർ 2 ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഇത്തരത്തിലുള്ള പഠന അനുഭവം വിദ്യാർത്ഥികൾക്ക് നൽകാൻ കഴിയും മിക്കപ്പോഴും ലബോറട്ടറി പരീക്ഷണങ്ങൾ പൂർണ്ണമായും നിർവചിക്കപ്പെട്ടിട്ടുണ്ട് അതിന്റെ ഫലവും നന്നായി അറിയാം കൂടാതെ പ്രഖ്യാപിത ഫലം കൈവരിക്കുമെന്ന് ഉറപ്പുവരുത്തുന്നതിനായി വിദ്യാർത്ഥികൾ പരീക്ഷണം നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ചില പരീക്ഷണങ്ങൾക്ക് കൃത്യമായി നിർവചിക്കപ്പെട്ട ഒരു ഫലവും ഇല്ലെങ്കിൽ അത് വിദ്യാർത്ഥികളെ നന്നായി പഠിക്കാൻ സഹായിക്കും എന്നാൽ അവ കൂടുതൽ പര്യവേക്ഷണാത്മകമാണ് അതിനാൽ വിദ്യാർത്ഥികൾ കുറച്ച് തുറന്ന രീതിയിൽ ചില പരീക്ഷണങ്ങൾ നടത്താനുള്ള അവസരം ലഭിക്കുകയാണെങ്കിൽ ഇത് ചില ആവേശവും വിദ്യാർത്ഥികളുടെ മികച്ച പഠനവും സൃഷ്ടിച്ചേക്കാം അതിനാൽ അത്തരമൊരു അവസരം നൽകിയിട്ടുണ്ടോ അതിനാൽ നമുക്ക് വിദ്യാർത്ഥികളോട് ചോദിക്കാൻ കഴിയും "കോഴ്സിന് ചില പര്യവേക്ഷണ പഠനത്തെ അനുവദിക്കുന്ന ചില തുറന്ന പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു " അതിനാൽ കോർ കോഴ്സുകൾക്കായി കോഴ്സ് എക്സിറ്റ് സർവേയിൽ ഞങ്ങൾ ഇതിനകം ഉൾപ്പെടുത്തിയിട്ടുള്ള സാധാരണ ചോദ്യങ്ങൾക്ക് പുറമേ ലബോറട്ടറി കോഴ്സുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദിക്കാൻ കഴിയുന്ന ചില ചോദ്യങ്ങൾ ഇവയാണ് ഇനി നമുക്ക് ഇലക്ടീവ് കോഴ്സുകൾ നോക്കാം ഇലക്ടീവ് കോഴ്സുകളുടെ ഫലങ്ങൾ പ്രോഗ്രാം ഫലങ്ങളും പ്രോഗ്രാം നിർദ്ദിഷ്ട ഫലങ്ങളും കൈവരിക്കുന്നതിന് സംഭാവന ചെയ്യുന്നു അതിൽ സംശയമില്ല എന്നിരുന്നാലും എൻബിഎ അനുസരിച്ച് പ്രോഗ്രാം ഫലങ്ങളുടെയും പ്രോഗ്രാം നിർദ്ദിഷ്ട ഫലങ്ങളുടെയും നേട്ടങ്ങളുടെ കണക്കുകൂട്ടലിൽ ഇലക്ടീവ് കോഴ്സുകളുടെ ഫലങ്ങൾ ഉപയോഗിക്കരുത് പിഒകൾക്കും പിഎസ്ഒകൾക്കുമായുള്ള നേട്ട കണക്കുകൂട്ടലുകൾ കോർ കോഴ്സുകളുടെ കോഴ്സ് ഫലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണമെന്ന് എൻബിഎ നിർബന്ധിക്കുന്നു ഗുണനിലവാര വീക്ഷണകോണിൽ നിന്ന് ഇലക്ടീവ് കോഴ്സുകൾ വളരെ പ്രധാനമല്ലെന്ന് വീക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇത് എങ്ങനെയോ നയിക്കുന്നു തിരഞ്ഞെടുപ്പ് കോഴ്സുകളുടെ ഫലങ്ങൾ പ്രോഗ്രാം ഫലങ്ങളിലേക്കും പ്രോഗ്രാം നിർദ്ദിഷ്ട ഫലങ്ങളിലേക്കും സംഭാവന ചെയ്യുന്നുവെന്നത് ശ്രദ്ധിക്കുക വാസ്തവത്തിൽ ഇലക്ടീവുകൾക്ക് പ്രത്യേക സ്വഭാവ സവിശേഷതകളുണ്ട് ബന്ധപ്പെട്ട സാങ്കേതിക മേഖലയിലെ സംഭവവികാസങ്ങളോട് കൂടുതൽ പ്രതികരിക്കാൻ അവ ഒരു പ്രോഗ്രാമിനെ അനുവദിക്കുന്നു കാരണം പ്രധാന കോഴ്സുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇലക്ടീവുകൾ വളരെ എളുപ്പത്തിൽ പാഠ്യപദ്ധതിയിൽ പതിവായി നൽകാം അതിനാൽ ബന്ധപ്പെട്ട സാങ്കേതിക മേഖലയിലെ സംഭവവികാസങ്ങളോട് കൂടുതൽ ചലനാത്മകവും പ്രതികരിക്കുന്നതും ആവാ൯ ഒരു പ്രോഗ്രാമിനെ അവർ അനുവദിക്കുന്നു ഒരു തിരഞ്ഞെടുപ്പ് കോഴ്സിന് പോലും ഗുണനിലവാര ലൂപ്പ് അടയ്ക്കേണ്ടത് അത്യാവശ്യമാണ് ഇലക്ടീവ് കോഴ്സുമായി ബന്ധപ്പെട്ട് പോലും അടുത്ത തവണ ഓഫർ ചെയ്യുമ്പോൾ ഫീഡ്ബാക്ക് ഡാറ്റ നേടുകയും കോഴ്സ് നടപ്പിലാക്കുന്നതിൽ മെച്ചപ്പെടുത്തലുകൾക്കായി ആസൂത്രണം ചെയ്യുകയും വേണം അതിനാൽ സി കൾ കൈവരിക്കുന്നതിന് ഞങ്ങൾ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കണം നമ്മൾ സിഒകളുടെ നേട്ടം യഥാർത്ഥമായി കണക്കുകൂട്ടണം വിടവുകളുണ്ടെങ്കിൽ ഞങ്ങൾ മെച്ചപ്പെടുത്തലുകൾക്ക് ആസൂത്രണം ചെയ്യണം അതിനാൽ കോഴ്സുകളിൽ നിന്ന് ഫീഡ്ബാക്ക് ഡാറ്റ നേടുന്നത് കോർ കോഴ്സുകളെ പോലെ തന്നെ ഇലക്ടീവ് കോഴ്സുകൾക്കും പ്രധാനമാണ് അതിനാൽ കോർ കോഴ്സുകൾക്ക് അത്തരം ഫീഡ്ബാക്ക് ലഭിക്കുന്നതിനേക്കാൾ ഇലക്ടീവ് കോഴ്സുകളെക്കുറിച്ച് ഗുണനിലവാരമുള്ള ഫീഡ്ബാക്ക് ലഭിക്കുന്നത് കൂടുതൽ വെല്ലുവിളിയാണ് ഇലക്ടീവ് കോഴ്സുകളുടെ പ്രത്യേകതകൾ ഞങ്ങൾ കാണും പക്ഷേ ഇലക്ടീവ് കോഴ്സുകൾക്ക് പോലും ഫീഡ്ബാക്ക് ഡാറ്റ ലഭിക്കുന്നത് വളരെ പ്രധാനമാണ് ഇപ്പോൾ ഇലക്ടീവ് കോഴ്സുകളുമായി ബന്ധപ്പെട്ട സങ്കീർണ്ണതകൾ എന്തൊക്കെയാണ് വിവിധ സെമസ്റ്ററുകളിൽ ഇലക്ടീവ് കോഴ്സുകളുടെ എണ്ണവും ഈ ഇലക്ടീവ് ഘടനാരീതിയും ഇൻസ്റ്റിറ്റ്യൂട്ട് മുതൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വരെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു വാസ്തവത്തിൽ ഇലക്ടീവ് കോഴ്സുകളുമായി ബന്ധപ്പെട്ട് വലിയ വ്യത്യാസമുണ്ട് ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വളരെ പരിമിതമായ ഇലക്ടീവുകൾ വാഗ്ദാനം ചെയ്യുന്നു ചിലത് വിദ്യാർത്ഥികൾക്ക് വിശാലമായ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം ചെയ്യുന്നു വാസ്തവത്തിൽ ചില സാഹചര്യങ്ങളിൽ ഇലക്ടീവ് വകുപ്പിനുള്ളതാണെന്ന ഒരു തമാശയുണ്ട് കാരണം പാഠ്യപദ്ധതിയിൽ ഒരു കൂട്ടം ഇലക്ടീവ് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും വകുപ്പിന് ഒരൊറ്റ ഇലക്ടീവ് മാത്രമേ നൽകാനാകൂ അതിനാൽ ഫലപ്രദമായി ഇത് വിദ്യാർത്ഥികൾക്ക് പ്രധാനമായി മാറുന്നു എന്നാൽ ചില സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികൾക്ക് വിശാലമായ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം ചെയ്യുന്നു ഇലക്ടീവ് ഒരു പ്ലെയിൻ കൊട്ടയായി നൽകാം പത്ത് പതിനഞ്ച് കോഴ്സുകളുടെ ഒരു ലിസ്റ്റ് വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് ഈ പട്ടികയിൽ നിന്ന് എന്തും എടുക്കാം അല്ലെങ്കിൽ അവ ഗ്രൂപ്പുചെയ്ത് സെമസ്റ്റർ നിർദ്ദിഷ്ടമായിരിക്കാം ഒരു സെമസ്റ്ററിൽ രണ്ട് ഇലക്ടീവ് ഗ്രൂപ്പുകളുണ്ടെന്നും ഗ്രൂപ്പിൽ ഒന്നിൽ ഈ കോഴ്സുകളാണെന്നും ഗ്രൂപ്പ് രണ്ടിൽ ഈ കോഴ്സുകളാണെന്നും ഞാൻ പറയാം അതിനാൽ വിദ്യാർത്ഥികൾ ആദ്യ ഗ്രൂപ്പിൽ നിന്ന് കൃത്യമായി ഒരു ഇലക്ടീവും രണ്ടാമത്തെ ഗ്രൂപ്പിൽ നിന്ന് കൃത്യമായി ഒരു ഇലക്ടീവും എടുക്കണം അതിനർത്ഥം ഇലക്ടീവുകൾ ഗ്രൂപ്പുചെയ്തിരിക്കുന്നു ഈ ഗ്രൂപ്പുകൾ വളരെ സെമസ്റ്റർ നിർദ്ദിഷ്ടമാണ് ഒരു സെമസ്റ്ററിൽ മാത്രം ഒരു പ്രത്യേക ഗ്രൂപ്പ് വാഗ്ദാനം ചെയ്യുന്നു അതിനാൽ ഇലക്ടീവ് സംഘടിപ്പിക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഇലക്ടീവുകൾ സ്ട്രീമുകളായി ക്രമീകരിക്കാനും സാധ്യതയുണ്ട് ഈ അർത്ഥത്തിൽ ഇലക്ടീവുകൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു കൂടാതെ തുടർന്നുള്ള സെമസ്റ്ററുകളിൽ വിദ്യാർത്ഥികൾക്ക് ഒരേ സ്ട്രീമിൽ നിന്ന് തുടർച്ചയായ സെമസ്റ്ററുകളിൽ ഇലക്ടീവുകൾ എടുക്കേണ്ടിവരാം ഉദാഹരണത്തിന് ഈ വിദ്യാർത്ഥി ഇമേജ് പ്രോസസ്സിംഗ് പാറ്റേൺ റെക്കഗ്നിഷൻ സ്ട്രീം എന്നിവയിൽ നിന്ന് ഒരു ഇലക്ടീവ് എടുക്കുകയാണെങ്കിൽ അടുത്ത സെമസ്റ്ററിൽ അതേ സ്ട്രീമിൽ നിന്ന് വിദ്യാർത്ഥി മറ്റൊരു ഇലക്ടീവ്എടുക്കും അതിനാൽ ചില സ്ഥാപനങ്ങൾ യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികൾ ഒരു സ്ട്രീമിൽ നിന്നു മാത്രം ഇതുപോലെ തിരഞ്ഞെടുക്കണമെന്ന് നിർബന്ധിക്കുന്നു ചില സ്ഥാപനങ്ങളിൽ സ്ട്രീമുകൾ നിലവിലുണ്ടെങ്കിലും അവ കൂടുതൽ നിർദ്ദേശിക്കാവുന്നതും വിദ്യാർത്ഥികൾക്ക് സ്ട്രീമിൽ നിന്ന് പുറത്തുപോകാനുള്ള സ്വാതന്ത്യവുമുണ്ടാകാം എല്ലാ ഇലക്ടീവുകൾക്കും ഒരേ എണ്ണം ക്രെഡിറ്റുകൾ ഉണ്ടായിരിക്കാം പല സ്ഥാപനങ്ങളും ഈ നിയന്ത്രണം ഏർപ്പെടുത്തുന്നു പ്രോഗ്രാമിന്റെ അഡ്മിനിസ്ട്രേഷന്റെ സൌകര്യത്തിനാണ് പല സ്ഥാപനങ്ങളും ഈ നിയന്ത്രണം ഏർപ്പെടുത്തുന്നുത് എല്ലാ ഇലക്ടീവുകൾളും 300 അല്ലെങ്കിൽ എല്ലാ ഇലക്ടീവുകൾളും 400 ആണ് ഇതുപോലെ ഒരു ഇലക്ടീവുകൾക്ക് ഉണ്ടായിരിക്കാവുന്ന ക്രെഡിറ്റുകൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു ചില സ്ഥാപനങ്ങളിൽ ഇലക്ടീവുകൾക്ക് സംയോജിത ലബോറട്ടറികൾ ഉണ്ടാകണമെന്നില്ല എല്ലാ കോർ കോഴ്സുകൾക്കും മാറ്റം വരുന്ന ഘടനയുണ്ട് കൂടാതെ എല്ലാ ഇലക്ടീവ് കോഴ്സുകൾക്കും സമാനമായ ഘടനയുണ്ട് ഓരോ ഇലക്ടീവും 300 ആയിരിക്കണം അങ്ങനെയാണ് വ്യക്തമാക്കുന്നത് അതായത് ഇലക്ടീവ് കോഴ്സുകളുമായി സംയോജിത ലബോറട്ടറികളൊന്നും ഞങ്ങളെ അനുവദിക്കില്ല ചില സാഹചര്യങ്ങളിൽ അവർ അനുവദിച്ചേക്കാം വിജ്ഞാനശാഖാ നിർദ്ദിഷ്ടമോ അല്ലെങ്കിൽ അവ തുറന്ന ഇലക്ടീവുകളോ ആകാം മറ്റ് വകുപ്പുകൾ വാഗ്ദാനം ചെയ്യുന്ന ഇലക്ടീവുകൾ വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാം ഈ ഇലക്ടീവുകൾ സാധാരണയായി വിശാലമായ വീക്ഷണം നൽകാൻ വിദ്യാർത്ഥിയുടെ പഠനത്തിന്റെ വ്യാപ്തി കൂടുതൽ വിശാലമാക്കുന്നു ഉദാഹരണത്തിന് ഒരു കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം വാഗ്ദാനം ചെയ്യുന്ന ഒരു ഇലക്ടീവ് തിരഞ്ഞെടുക്കാം അത്തരമൊരു തുറന്ന ഇലക്ടീവ് സാധ്യമാണ് കൂടാതെ മറ്റൊരു കാര്യം കോർ കോഴ്സുകളിൽ സാധാരണയായി മാറ്റങ്ങൾ വലിയ കാലയളവിൽ സംഭവിക്കുന്നു എന്നതാണ് സാധാരണ കോർ കോഴ്സുകൾ തീരുമാനിച്ചുകഴിഞ്ഞാൽ കുറഞ്ഞത് ഒരു ബാച്ച് വിദ്യാർത്ഥികളെങ്കിലും അതായത് നാല് വർഷം ഒരേ ഘടനയോടെ പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു കോർ കോഴ്സിലെ മാറ്റം മാത്രമേ ആലോചിക്കുകയുള്ളൂ എന്നാൽ ഇലക്ടീവ് കോഴ്സുകളിൽ മാറ്റങ്ങൾ ഒരു വർഷം മുതൽ അടുത്ത വർഷം വരെ സംഭവിക്കാം അവ വളരെ വേഗത്തിലാണ് പുതിയ ഇലക്ടീവുകൾ വാഗ്ദാനം ചെയ്തേക്കാം പഴയ ഇലക്ടീവുകൾ ഉപേക്ഷിക്കാം ഉള്ളടക്കം മാറിയേക്കാം ഇലക്ടീവുകളുമായി ബന്ധപ്പെട്ട് നിരവധി സാധ്യതകൾ ഉണ്ട് ഇലക്ടീവ് കോഴ്സുകളിലേക്ക് രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം ഇലക്ടീവ് കോഴ്സുകളുടെ രജിസ്ട്രേഷൻ പലസ്ഥാപനങ്ങളും യഥാർത്ഥത്തിൽ ഡെലിവറി ചെയ്യുന്നതിനായി വാഗ്ദാനം ചെയ്യുന്ന ഒരു ഇലക്ടീവിൻ്റെ രജിസ്ട്രേഷനുകളുടെ കുറഞ്ഞസംഖ്യ വ്യവസ്ഥചെയ്യുന്നു അതായത് സെമസ്റ്ററിന്റെ തുടക്കത്തിൽ ഡിപ്പാർട്ട്മെന്റ് വാഗ്ദാനം ചെയ്യുന്ന ഇലക്ടീവുകൾ ലിസ്റ്റുചെയ്യുകയും വിദ്യാർത്ഥികൾ അവയ്ക്കായി രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്നു കൂടാതെ രജിസ്റ്റർ ചെയ്യുന്നവരുടെ മിനിമം എണ്ണം ഇല്ലെങ്കിൽ പ്രാരംഭ പട്ടികയിൽ നൽകിയിട്ടുള്ളവ ശരിക്കും നടപ്പിലാക്കാൻ കഴിയില്ല അതിനാൽ ഒരു ഇലക്ടീവ് യഥാർത്ഥത്തിൽ നൽകുന്നതിനായി ഏറ്റവും കുറഞ്ഞ വിദ്യാർത്ഥി രജിസ്ട്രാന്റുകളെ നിഷ്കർഷിക്കുന്നു ഇത് 10 അല്ലെങ്കിൽ 15 പോലുള്ള ഒരു ചെറിയ സംഖ്യയാകാം ഏത് സംഖ്യയാണെങ്കിലും ഒരു ഇലക്ടീവിന് യഥാർത്ഥത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവരുടെ ഏറ്റവും കുറഞ്ഞ എണ്ണം മാത്രമേ ഉണ്ടാകൂ എന്നും വരാം ആ ഇലക്ടീവിനായി രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികളുടെ എണ്ണം വളരെ ചെറുതാണെന്നതാണ് ഇതിന്റെ സൂചന അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ കോഴ്സ് എക്സിറ്റ് സർവേയ്ക്ക് വളരെ കുറച്ച് വിദ്യാർത്ഥികളിൽ നിന്ന് ഫീഡ്ബാക്ക് ലഭിക്കും അതിനാൽ അർത്ഥവത്തായ നിഗമനങ്ങളിൽ എത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ പക്കലുള്ള വളരെ ചെറിയ വിദ്യാർത്ഥികളിൽ നിന്ന് സാധുവായ ഡാറ്റ ലഭിക്കുന്നത് കൂടുതൽ വെല്ലുവിളിയായി മാറുന്നു അത്തരം സന്ദർഭങ്ങളിൽ എന്തു ചെയ്യണമെന്ന് ഞങ്ങൾ ചർച്ച ചെയ്യും എന്നാൽ ഇവയെല്ലാം നിലനിൽക്കുന്ന സാധ്യതകളാണ് ചിലത് മാത്രം വാസ്തവത്തിൽ മറ്റ് പല വ്യതിയാനങ്ങളും ഉണ്ട് അതിനാലാണ് ഒരു ഇലക്ടീവ് കോഴ്സിനായുള്ള കോഴ്സ് എക്സിറ്റ് സർവേയുടെ രൂപകൽപ്പനയ്ക്ക് അതിന്റേതായ പ്രത്യേക പ്രശ്നങ്ങളുള്ളത് ഞങ്ങൾ ഇതിനകം സൂചിപ്പിച്ചതുപോലെ സാധുവായ സർവേ ഡാറ്റ നേടുന്നത് വളരെ പ്രധാനമാണ് കോർ കോഴ്സുകളുമായി ബന്ധപ്പെട്ട് പോലും ഇത് ഒരു പ്രധാന വെല്ലുവിളിയാണ് എന്നാൽ ഇലക്ടീവ് കോഴ്സുകളെ സംബന്ധിച്ചിടത്തോളം ഇത് കൂടുതൽ വെല്ലുവിളിയായി മാറുന്നു ആദ്യത്തെ കാര്യം പിഒകളുടെയും പിഎസ്ഒകളുടെയും നേട്ടം കണക്കാക്കാൻ ഇലക്ടീവ് കോഴ്സുകൾ ഉപയോഗിക്കുന്നില്ലെങ്കിലും സർവേ ഡാറ്റ ശേഖരിക്കുന്ന പ്രക്രിയ കർശനമായി തുടരണം ഇലക്ടീവിനെ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട് നമുക്ക് അയവുള്ള കാര്യങ്ങളായി കണക്കാക്കരുത് അതിനാൽ സർവേ ഡാറ്റ ശേഖരിക്കുന്ന പ്രക്രിയ കോർ കോഴ്സുകളിലേതുപോലെ ഇലക്ടീവ് കോഴ്സുകളിലും കർശനമായിരിക്കണം ഇലക്ടീവ് കോഴ്സിനായി രജിസ്റ്റർ ചെയ്യുന്നവരുടെ എണ്ണം ചെറുതാണെങ്കിൽ കൂടുതൽ വിശദമായ സർവേ ഫോം ആവശ്യമായി വന്നേക്കാം എണ്ണം വളരെ ചെറുതായതിനാൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് അർത്ഥവത്തായതും സാധുതയുള്ളതുമായ ഡാറ്റ നേടാനാകില്ല കൂടുതൽ വിവരങ്ങൾ നേടിയെടുക്കുന്നതിന് കൂടുതൽ വിശദമായി ചോദ്യങ്ങൾ നൽകുന്നതിനാൽ ഈ സർവേ ഡാറ്റയിൽ നിന്നും സാധുവായ നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ ഞങ്ങൾക്ക് കഴിയും ഇലക്ടീവ് കോഴ്സിനായി രജിസ്റ്റർ ചെയ്യുന്നവരുടെ എണ്ണം ചെറുതാണെങ്കിൽ കൂടുതൽ വിശദമായ സർവേ ഫോം ആവശ്യമായി വന്നേക്കാം വിദ്യാർത്ഥികൾ സന്നദ്ധരാണെങ്കിൽ ഇലക്ടീവ് കോഴ്സുകളെക്കുറിച്ച് കൂടുതൽ ഡാറ്റ നേടുന്നതിന് ഒരു എക്സിറ്റ് മുഖാമുഖ പരസ്പരവ്യവഹാര സെഷൻ നടത്തുന്നത് വളരെ ഉപയോഗപ്രദമായിരിക്കും സംഖ്യ ചെറുതാണെങ്കിൽ ഇൻസ്ട്രക്ടർക്ക് സാധാരണയായി ഒന്നിൽ നിന്ന് ഒരു തരത്തിലുള്ള ആശയവിനിമയം സാധ്യമാണ് വിദ്യാർത്ഥികൾ സന്നദ്ധരാണെങ്കിൽ കോഴ്സ് എക്സിറ്റ് സർവേയിൽ ഇൻസ്ട്രക്ടർക്ക് മുഖാമുഖം സംവദിക്കാനും അധിക ഡാറ്റ നേടാൻ ശ്രമിക്കാനും കഴിയും അജ്ഞാത സർവേ ഡാറ്റയിൽ വെളിപ്പെടുത്തുന്നത് മികച്ചതാണ് പക്ഷേ കൂടാതെ കൂടുതൽ ഡാറ്റ നേടുന്നതിന് ഒരാൾക്ക് ഒരു എക്സിറ്റ് മുഖാമുഖ പരസ്പരവ്യവഹാരം നടത്താം അടുത്ത തവണ ഉപയോഗപ്രദമാകുന്നതിന് സർവേ ഡാറ്റയുടെ കൂടുതൽ വിശദമായ വിശകലനം രേഖപ്പെടുത്തേണ്ടതുണ്ട് കാരണം അടുത്ത തവണ ഇലക്ടീവ് കോഴ്സിലെ ഉള്ളടക്കങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാം അതിനാൽ സർവേ ഡാറ്റയുടെ വിശകലനം ഓരോ സിഒയ്ക്കും പ്രത്യേകമായിരിക്കണം അതിനാൽ അടുത്ത തവണ ചെറിയ മാറ്റങ്ങളുണ്ടെങ്കിൽപ്പോലും സർവേ ഡാറ്റയിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെ വലിയൊരു ഭാഗം നമുക്ക് ഉപയോഗിക്കാൻ കഴിയും ചില മാറ്റങ്ങളുണ്ടെങ്കിലും അടുത്ത തവണ ഇലക്ടീവ് വാഗ്ദാനം ചെയ്യുന്നതിന് നിഗമനങ്ങൾ ഇപ്പോഴും ഉപയോഗപ്രദമാണ് അതിനാൽ അടുത്ത തവണ ഉപയോഗപ്രദമാകുന്നതിന് സർവേ ഡാറ്റയുടെ കൂടുതൽ വിശദമായ വിശകലനം രേഖപ്പെടുത്തേണ്ടതുണ്ട് തീർച്ചയായും അടുത്ത തവണ ഓഫർ ചെയ്യുന്ന ഇലക്ടീവ് കോഴ്സിൽ മാറ്റങ്ങളൊന്നുമില്ലെങ്കിൽ അത് നല്ലതാണ് തിരഞ്ഞെടുപ്പ് കോഴ്സിൽ ചില ചെറിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിലും കൂടുതൽ വിശദമായ വിശകലനം ഡാറ്റ ഉപയോഗപ്രദമാക്കാൻ സഹായിക്കും ഇലക്ടീവ് കോഴ്സുകളുടെ യഥാർത്ഥ എക്സിറ്റ് സർവേ ഞങ്ങൾ നോക്കുകയാണെങ്കിൽ കോഴ്സ് എക്സിറ്റ് സർവേകളിലെ മുമ്പത്തെ യൂണിറ്റിൽ ചർച്ച ചെയ്ത എല്ലാ ചോദ്യങ്ങളും ഇലക്ടീവ് കോഴ്സിനും ബാധകമാണ് ഇലക്ടീവ് കോഴ്സുകൾക്ക് സാധ്യമായ ചില സാധാരണ അധിക ചോദ്യങ്ങൾ നമുക്ക് ചർച്ചചെയ്യാം "ഇത് വാഗ്ദാനം ചെയ്യുന്ന സെമസ്റ്റർ ഉചിതമാണ്" ഞാൻ സൂചിപ്പിച്ചതുപോലെ ചില ഇലക്ടീവുകൾ സെമസ്റ്റർ നിർദ്ദിഷ്ടമാണ് അതിനാൽ ഇത് ഒരു പ്രത്യേക സെമസ്റ്ററിലാണ് വാഗ്ദാനം ചെയ്യുന്നതെങ്കിൽ അത് ഉചിതമായ ഒന്നാണെന്ന് വിദ്യാർത്ഥികൾക്ക് തോന്നുന്നുണ്ടോ ഈ ഇലക്ടീവ് കോഴ്സ് അനുമാനിക്കുന്ന മുൻവ്യവസ്ഥാ അറിവുമായി ഇത് ബന്ധപ്പെട്ട് ആകാം മുമ്പത്തെ സെമസ്റ്ററിൽ ഇത് ഇതിനകം ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഇലക്ടീവ് കോഴ്സിന്റെ സങ്കീർണ്ണത അത് ആ സെമസ്റ്ററിലെ വിദ്യാർത്ഥികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പക്വതതലവുമായി പൊരുത്തപ്പെടുന്നുണ്ടോ അതിനാൽ ഈ എല്ലാ പരിഗണനകളിൽ നിന്നും "ഇത് ഉചിതമാണോ ഈ ഇലക്ടീവ് വാഗ്ദാനം ചെയ്യുന്ന സെമസ്റ്റർ ഇത് ഉചിതമാണോ " അല്ലെങ്കിൽ ഇത് പിന്നീടുള്ള സെമസ്റ്ററിലോ മുമ്പത്തെ സെമസ്റ്ററിലോ നൽകണമെന്ന് വിദ്യാർത്ഥികൾക്ക് തോന്നുകയാണെങ്കിൽ ഈ വശങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കും "കോഴ്സ് പഠന പ്രോഗ്രാമിന് പ്രസക്തമാണ്" ഇത് പ്രത്യേകിച്ചും വിജ്ഞാനശാഖാ നിർദ്ദിഷ്ട ഇലക്ടീവ് ആണെങ്കിൽ അത് പഠന പ്രോഗ്രാമിന് പ്രസക്തമാണോ എന്ന് ഞങ്ങൾക്ക് ചോദിക്കാം "ഒരു ലബോറട്ടറി ഘടകവും ഉണ്ടായിരുന്നെങ്കിൽ ഇലക്ടീവിൻ്റെ മൂല്യം മികച്ചതാകുമായിരുന്നു " ചില ഇലക്ടീവ് കോഴ്സുകൾ തിയറി കോഴ്സുകളായി വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും ലബോറട്ടറിയോടൊപ്പം മികച്ച രീതിയിൽ പഠിപ്പിക്കപ്പെടുന്നു അതിനാൽ ആ മെറ്റീരിയൽ നന്നായി പഠിക്കാൻ ഒരു ലബോറട്ടറി സഹായിക്കുമെന്ന് വിദ്യാർത്ഥികൾക്ക് ശക്തമായി തോന്നുകയാണെങ്കിൽ അത് സംബന്ധിച്ച് ഞങ്ങൾ എന്തെങ്കിലും ആസൂത്രണം ചെയ്യേണ്ടതുണ്ട് അതിനാൽ ഈ ചോദ്യം അല്പം വ്യത്യസ്തമായ രീതിയിൽ നടപ്പിലാക്കാൻ ആസൂത്രണം ചെയ്യാൻ ഇൻസ്ട്രക്ടറെ അനുവദിക്കും "ഒരു ലബോറട്ടറി ഘടകവും ഉണ്ടായിരുന്നെങ്കിൽ ഇലക്ടീവിന്റെ മൂല്യം മികച്ചതാകുമായിരുന്നു " "ഇലക്ടീവ് കോഴ്സിന് ഗണ്യമായി പുതിയ പഠന സാമഗ്രികളുണ്ട്" ഈ ഇലക്ടീവ് കോഴ്സിൽ നൽകിയിരിക്കുന്ന മെറ്റീരിയൽ പുതുമയുള്ള ഒന്നാണ് പകരമായി നമുക്ക് ചോദ്യം ചോദിക്കാം "കോഴ്സ് ഉള്ളടക്കങ്ങൾ കോർ കോഴ്സുകളുടെ ഉള്ളടക്കത്തിലേക്ക് ഗണ്യമായി അതിക്രമിക്കുന്നു" രണ്ടും പ്രധാനമായും സമാനമാണ് രണ്ട് ചോദ്യങ്ങളും നിങ്ങൾ വാചകം പറയാൻ ആഗ്രഹിക്കുന്ന രീതി നിങ്ങളുടേതാണ് എന്നാൽ അടിസ്ഥാനപരമായി നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് 2 3 വ്യത്യസ്ത കോർ കോഴ്സുകളിൽ നിന്നുള്ള മെറ്റീരിയൽ ഒന്നിച്ച് ചേർത്ത് ഒരു ഇലക്ടീവ് കോഴ്സായി വാഗ്ദാനം ചെയ്യുന്നുവെങ്കിൽ അത് വിദ്യാർത്ഥികളുടെ പഠനത്തിൽ ഗണ്യമായി ഒന്നും ചേർക്കുന്നില്ല അതിനാൽ ആ ഇലക്ടീവ് കോഴ്സിൽ നൽകിയിട്ടുള്ള മെറ്റീരിയൽ ഗണ്യമായി പുതിയ പഠന സാമഗ്രികളാണോ അതോ മറ്റ് ചില ഇലക്ടീവ് കോഴ്സുകളിൽ ഇതിനകം ചർച്ച ചെയ്തതിനേക്കാൾ കൂടുതലോ കുറവോ എന്ന് ഒരാൾക്ക് ചോദിക്കാൻ കഴിയും "ഇലക്ടീവ് കോഴ്സ് നിലവിലെ സാങ്കേതികവിദ്യയുമായി ബന്ധപ്പെട്ടതാണ് " ഇത് പ്രധാനമാണ് ഏറ്റവും പുതിയ പ്രശ്നങ്ങൾ സാങ്കേതികവിദ്യയിലെ ഏറ്റവും പുതിയ സംഭവവികാസങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്നു "നൽകിയിട്ടുള്ള പഠന സാമഗ്രികൾ പ്രസക്തമായിരുന്നു" പ്രത്യേകിച്ചും ഇലക്ടീവ് സാങ്കേതികവിദ്യയുടെ സമീപകാല സംഭവവികാസങ്ങളാണെങ്കിൽ പഠന സാമഗ്രികൾ വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ ആക്സസ് ചെയ്യാവുന്നതോ ലഭ്യമായതോ ആയിരിക്കില്ല അതിനാൽ നൽകിയ പഠന സാമഗ്രികൾ പ്രസക്തവും എളുപ്പത്തിൽ ആക്സസ് ചെയ്യാവുന്നതുമാണോ എന്ന് അറിയേണ്ടത് പ്രധാനമാണ് ഇപ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്തതുപോലെ ഒരു കോഴ്സ് ഒരു തിയറി കോഴ്സായി മാത്രമേ വാഗ്ദാനം ചെയ്യുന്നുള്ളൂവെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ലബോറട്ടറി അനുഭവം വിദ്യാർത്ഥികൾക്ക് നൽകിയാൽ പഠനം മികച്ചതായിരിക്കും അതിനാൽ ഒരു കോഴ്സ് ശുദ്ധമായ ഒരു തിയറി കോഴ്സാണെങ്കിൽപ്പോലും ഉചിതമായ ലബോറട്ടറി പരീക്ഷണങ്ങളെക്കുറിച്ച് ക്ലാസ് മുറിയിൽ പോലും ചില പ്രകടനങ്ങൾ നടത്താൻ കഴിയും അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ ലബോറട്ടറിയിലേക്ക് കൊണ്ടുപോകുകയും ചില വിഷയങ്ങൾ ഉചിതമായ ലബോറട്ടറി പരീക്ഷണങ്ങളിലൂടെ വിശദീകരിക്കുകയും ചെയ്താൽ ഇത് സഹായകമാകും അങ്ങനെയാണെങ്കിൽ "കോഴ്സിൽ ചർച്ചചെയ്ത കാര്യങ്ങൾ പര്യവേക്ഷണം ചെയ്യാൻ പ്രസക്തമായ ഉപകരണങ്ങൾ ലബോറട്ടറികളിൽ ലഭ്യമാണോ " ഇത് ഒരു സംയോജിത കോഴ്സാണെങ്കിൽ പ്രസക്തമായ ലബോറട്ടറി അവിടെ ഉണ്ടാകും 3 0 0 കോഴ്സ് പോലെ ശുദ്ധമായ ഒരു തിയറി കോഴ്സ് പോലും ലബോറട്ടറിയിലെ മെറ്റീരിയൽ പര്യവേക്ഷണം ചെയ്യാനുള്ള ചില സാധ്യതകളിൽ നിന്ന് പ്രയോജനം നേടിയേക്കാം പ്രസക്തമായ ഉപകരണങ്ങൾ ലഭ്യമാണെങ്കിൽ അത് മെറ്റീരിയൽ നന്നായി പഠിക്കാൻ വിദ്യാർത്ഥികളെ സഹായിച്ചേക്കാം അതിനാൽ ഞങ്ങൾക്ക് ഒരു ചോദ്യം ചോദിക്കാം "കോഴ്സിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ പര്യവേക്ഷണം ചെയ്യാൻ പ്രസക്തമായ ഉപകരണങ്ങൾ ലബോറട്ടറികളിൽ ലഭ്യമാണോ" കോഴ്സ് ഒരു തിയറി കോഴ്സായിരുന്നുവെങ്കിലും സ്ട്രീം ബേസ് ഇലക്ടീവ്സിന്റെ കാര്യത്തിൽ സ്ട്രീം യുക്തിപരമായി യോജിപ്പുള്ളതും നന്നായി ചിട്ടപ്പെടുത്തിയതുമാണോ എന്ന് നമുക്ക് ചോദിക്കാം സ്ട്രീമിലെ ആദ്യ ഭാഗത്തിന് സാധുവായതും ഉപയോഗപ്രദവുമായ ഡാറ്റ നൽകുന്നത് വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ ഇത് സ്ട്രീമിലെ കഴിഞ്ഞ ഇലക്ടീവ് കോഴ്സാണെങ്കിൽ സ്ട്രീം യുക്തിപരമായി യോജിപ്പുള്ളതും നന്നായി ചിട്ടപ്പെടുത്തിയതുമാണോ എന്നതിനെക്കുറിച്ച് വിദ്യാർത്ഥികൾ അവരുടെ അഭിപ്രായം പറയാൻ മെച്ചപ്പെട്ട നിലയിലായിരിക്കാം തുറന്ന ഇലക്ടീവുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദ്യം ചോദിക്കാം "വിശാലമായ വീക്ഷണം നേടുന്നതിന് കോഴ്സ് സഹായിച്ചു" വീണ്ടും ഇത് 1 മുതൽ 5 വരെ റേറ്റിംഗ് സ്കെയിലിൽ ആകാം അതിനാൽ പൊതുവേ ഇത് വിദ്യാർത്ഥികൾ തുറന്ന ഇലക്ടീവിനെ ഏതുവിധത്തിൽ ഉപയോഗിക്കുന്നുവെന്നതിന്റെ ഒരു സൂചന നൽകും അവ എത്രത്തോളം ഉപയോഗപ്രദമാണെന്ന് അവർ കണ്ടെത്തുന്നു അതിനാൽ ഈ വൈവിധ്യങ്ങൾ സാധ്യമാണ് അഭ്യാസം നിങ്ങൾ പഠിപ്പിച്ച ലബോറട്ടറി കോഴ്സിനായി ഒരു കോഴ്സ് എക്സിറ്റ് സർവേ രൂപകൽപ്പന ചെയ്യുക നിങ്ങൾ പഠിപ്പിച്ച ഇലക്ടീവ് കോഴ്സിനായി ഒരു കോഴ്സ് എക്സിറ്റ് സർവേ രൂപകൽപ്പന ചെയ്യുക അഭ്യാസത്തിന്റെ ഫലങ്ങൾ tale iisctagmail ൽ പങ്കിട്ടതിന് നന്ദി അടുത്ത യൂണിറ്റിൽ ഞങ്ങൾ പ്രോജക്റ്റ് നോക്കും പ്രോജക്റ്റ് സർവേയുടെ രൂപകൽപ്പനയും ഉപയോഗവും മനസിലാക്കുക കോർ കോഴ്സുകൾക്കായി ഞങ്ങൾ ചില മാറ്റങ്ങളോടെ ചർച്ച ചെയ്ത കോഴ്സ് എക്സിറ്റ് സർവേ ചില അധിക പരിഗണനകളോടെ ഇലക്ടീവ് കോഴ്സുകൾക്കും ലബോറട്ടറി കോഴ്സുകൾക്കും ഉപയോഗിക്കാം കൂടാതെ പ്രോജക്റ്റ് വരുമ്പോൾ ചില അധിക പരിഗണനകൾ ചിത്രത്തിലേക്ക് വരുന്നു അതിനാൽ അടുത്ത യൂണിറ്റിൽ അവസാന വർഷ പ്രോജക്റ്റുകൾക്കായി പ്രത്യേകമായി എക്സിറ്റ് സർവേ ഫോം എങ്ങനെ രൂപകൽപ്പന ചെയ്യാമെന്നും ഉപയോഗിക്കാമെന്നും ഞങ്ങൾ കാണും